ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും ഇന്ന് നമ്മൾ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ മറ്റൊരു പ്രധാന വശത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അത് ക്ലൌഡ് സുരക്ഷ ആണ് സുരക്ഷാ ഭാഗങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വ അവലോകനം നടത്താൻ നമ്മൾ ശ്രമിക്കു ഈ സുരക്ഷ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെ എങ്ങനെ ബാധിക്കുന്നു അത് ഒരു സേവനമെന്ന നിലയിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനായി പോകുമ്പോൾ നമ്മൾ ഒരു മൂന്നാം കക്ഷി ക്ലൌഡ് സേവന ദാതാവിനെ ആശ്രയിക്കുന്നു നമ്മളുടെ അപ്ലിക്കേഷൻ ഡാറ്റ പ്രോസസ്സുകൾ ചില മൂന്നാം കക്ഷികളിൽ പ്രവർത്തിക്കുന്നു ഇത് മൂന്നാം കക്ഷിയിൽ പ്രവർത്തിക്കുമ്പോഴെല്ലാം സുരക്ഷ ഒരു പ്രശ്നമായിത്തീരുന്നു ലഭ്യത എന്താണ് ഡാറ്റ മറ്റ് ചില കക്ഷികൾ കണ്ടാലും തടസ്സപ്പെടുത്തിയാലും എന്റെ ഡാറ്റ സംഭരിക്കപ്പെടുന്നു കൂടാതെ ആ ആശങ്കകൾ ഉണ്ടാകും പ്രത്യേകിച്ചും ഇത് ഉണ്ടെങ്കിൽ ഒരു മിഷൻ ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് പോലുള്ള ചില നിർണായക ഡാറ്റ വിദ്യാർത്ഥികളുടെ ഫലങ്ങളുമായി ബന്ധപ്പെട്ട അക്കാദമിക് ഡാറ്റ എന്നിവയും മറ്റ് കാര്യങ്ങളും ഉണ്ട് അടിയന്തിരമായി ഇത് പരിശോധിക്കേണ്ടതുണ്ട് ഈ ക്ലൌഡിലേക്ക് പോകുന്നതിന് ഒരു പ്രധാന തടസ്സം സാങ്കേതികവിദ്യയേക്കാൾ കൂടുതലാണ് സുരക്ഷയെക്കുറിച്ചുള്ള ഈ ആശങ്ക ഒപ്പം കൂടുതൽ ഡാറ്റാ പോളിസി മുതലായ നയങ്ങൾ എന്നിങ്ങനെയുള്ളവ ഇതുപയോഗിച്ച് നമ്മൾ നമ്മളുടെ കാര്യം ആരംഭിക്കും പക്ഷേ അതിലേക്ക് പോകുന്നതിനുമുമ്പ് ഞാൻ കമ്പ്യൂട്ടർ സുരക്ഷയെക്കുറിച്ചോ വിവര സുരക്ഷയെക്കുറിച്ചോ നെറ്റ്വർക്ക് സുരക്ഷയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ സുരക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണ് അവിടെ മറ്റേതെങ്കിലും രൂപത്തിലുള്ള എല്ലാ വശങ്ങളും ക്ലൌഡ്ൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആശങ്ക വ്യത്യസ്തമായിരിക്കും ക്ലൌഡ് സുരക്ഷാ ഭാഗത്തേക്ക് പോകുന്നതിനുമുമ്പ് ഏതെങ്കിലും കമ്പ്യൂട്ടിംഗ് സേവന കമ്പ്യൂട്ടിംഗിനും നെറ്റ്വർക്കിംഗ് സേവനത്തിനും പൊതുവായി സുരക്ഷ കാണുമെന്നത് ഓർക്കുക സുരക്ഷയെക്കുറിച്ച് നോക്കിയാൽ 3 അടിസ്ഥാന ഘടകങ്ങൾ രഹസ്യാത്മകത സമഗ്രത ലഭ്യത എന്നിവയാണ് സിഐഎ എന്ന് പറയുന്നു ഡാറ്റയും റിസോഴ്സ്കളും മറച്ചുവെക്കുന്നത് രഹസ്യാത്മകതയാണ് സമഗ്രത എന്നത് ഡാറ്റ സമഗ്രത നിലനിർത്തുന്നു അല്ലെങ്കിൽ ഉത്ഭവം അല്ലെങ്കിൽ ഉറവിട സമഗ്രത സൂചിപ്പിക്കുന്നു അതുപോലെ ഞാൻ എ മുതൽ ബി വരെ അയച്ചതെല്ലാം b ന് അതേ കാര്യം തന്നെ ലഭിക്കുന്നു അല്ലെങ്കിൽ ഉറവിടത്തിന്റെ സമഗ്രത അല്ലെങ്കിൽ പ്രാമാണീകരണം ഉണ്ട് അവിടെ നിന്ന് തന്നെ ഡാറ്റയിലേക്കും റിസോഴ്സ്കളിലേക്കും ഉള്ള ആക്സസ് ലഭ്യത മറ്റൊരു പ്രധാന ഘടകമാണ് ലഭ്യതയിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന സേവനങ്ങളുടെ നിഷേധമായാണ് മിക്ക ആക്രമണങ്ങളിലും നടക്കുന്നതെന്ന് നമ്മൾ കാണുന്നത് എല്ലാം മികച്ചതാണ് പക്ഷേ ഒടുവിൽ നിങ്ങളുടെ കയ്യിൽ റിസോഴ്സ് ഇല്ല ഇത് ഒരുതരം ഡോസ് തരത്തിലുള്ള ആക്രമണങ്ങളാണ് മറുവശത്ത് നടക്കുന്ന ഏതെങ്കിലും സുരക്ഷാ ആക്രമണം വിവരങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഏതെങ്കിലും നടപടി അല്ലെങ്കിൽ സിഐഎ തരത്തിലുള്ള കാര്യങ്ങൾ ലംഘിക്കുന്ന ഏതെങ്കിലും നടപടി അടിസ്ഥാനപരമായ അവകാശമാണെന്ന് പറയുന്നു നമ്മൾ കാണുന്ന മറ്റ് നിരവധി ഘടകങ്ങളുണ്ട് അവിടെ നോക്കിയാൽ സാധാരണഗതിയിൽ 4 തരം കാര്യങ്ങളുണ്ടെന്ന് കാണാം ഇന്ററപ്ഷൻ ഇന്റർസെപ്ഷൻ മോഡിഫിക്കേഷൻ ഫാബ്രിക്കേഷൻ ഈ 4 ഘടകങ്ങൾ കൂടുതലോ കുറവോ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത് ആക്രമണസമയത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന എല്ലാത്തരം കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു ഡാറ്റ അയയ്ക്കുന്ന ഒരു ഉറവിടമാണ് നമ്മളുടെ അടിസ്ഥാന മോഡൽ ഒപ്പം തടസ്സങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒരു സന്ദേശമോ ആശയവിനിമയ പാതയോ തടസ്സപ്പെട്ടു ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് തടസ്സമാകാം പക്ഷേ മറ്റാരെങ്കിലും കാര്യം തടസ്സപ്പെടുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇത് ലഭ്യതയ്ക്കെതിരായ ആക്രമണമാണ് ഇത് ലഭ്യത തടയുന്നു ഇത് നിങ്ങൾ ഒരു എ മുതൽ ബി അല്ലെങ്കിൽ എസ് വരെ ഡിയിലേക്കും മറ്റാരിലേക്കോ അയയ്ക്കുന്നതുപോലുള്ള രഹസ്യസ്വഭാവത്തിന് നേരെയുള്ള ആക്രമണമാണ് പെനെട്രേഷൻ നടത്തുന്നത് ഇത് പരിഷ്ക്കരണത്തിനെതിരായ ആക്രമണമാകാം ഈ ആക്രമണം ആ ഡാറ്റയുടെ സമഗ്രത അല്ലെങ്കിൽ ഉത്ഭവം പോലും ശരിയാണ് ഉറവിടം d ലേക്ക് അയയ്ക്കുന്നു എന്നാൽ അതിനിടയിൽ ഒരു പെനെട്രേഷൻ I ഉണ്ട് അത് സന്ദേശം തടസ്സപ്പെടുത്തുകയും സന്ദേശം മാറ്റുകയും d ലേക്ക് അയയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ d for d എന്നത് s ൽ നിന്ന് വരുന്ന ഒരു സന്ദേശമാണ് am എന്ന സന്ദേശം am dash ആയി മാറ്റിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും d നായി അത് അയച്ച സന്ദേശമാണ് അല്ലെങ്കിൽ സ്രോതസ്സുകൾ കൈമാറിയതാണ് അത് സമഗ്രതയ്ക്കെതിരായ ആക്രമണമാണ് ആധികാരികതയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകാം ഉറവിടങ്ങൾ ശരിയാണെന്ന് ഞാൻ നടിക്കുകയോ നുഴഞ്ഞുകയറുകയോ ചെയ്യുന്നു ഒപ്പം ഇത് ആധികാരികതയ്ക്കെതിരായ ആക്രമണമാണ് എന്റെ ഉറവിടം എനിക്ക് പ്രാമാണീകരിക്കേണ്ടതുണ്ട് ഒരു സന്ദേശം ലഭിക്കുന്നതിന് മുമ്പ് ഒരു ആധികാരിക ഉറവിടത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടതാണെന്ന് ഞാൻ അറിയേണ്ടതുണ്ട് എനിക്ക് ആ സന്ദേശം ലഭിക്കുന്നു അത് ആധികാരികതയ്ക്കെതിരായ ആക്രമണമാണ് അല്ലെങ്കിൽ നമ്മൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു ഒരു വശത്ത് പ്രധാന സുരക്ഷാ ഘടകങ്ങൾ മറുവശത്ത് ഏത് തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാകാമെന്ന് നമ്മൾ കാണുന്നു നിങ്ങൾ ഇവ നോക്കിയാൽ ഇത് ഒരു കമ്പ്യൂട്ടർ സുരക്ഷയാണോ എന്നതിന് ഇത് ശരിയാകും ഒരു വിവര സുരക്ഷ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സുരക്ഷ അല്ലെങ്കിൽ ക്ലൌഡ് സുരക്ഷ അവകാശം അവയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവസവിശേഷതകളും പ്രകടനവുമുണ്ടായിരിക്കാം എന്നിരുന്നാലും ഇതിന് സമാനമായ തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്താണ് ഭീഷണികൾ എന്നത് കാണാം ഭീഷണികൾ അത് ശരിയായി ആക്രമിക്കപ്പെട്ടുവെന്ന് അർത്ഥമാക്കുന്നില്ല ദുർബലത എന്നത് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടതാണെന്ന് അർത്ഥമാക്കുന്നില്ല പക്ഷേ ഇത് സാധ്യമായ ഭീഷണികളാണ് ഭീഷണികളുടെ ക്ലാസുകൾ വെളിപ്പെടുത്തൽ അവകാശത്തിന്റെ ഭീഷണിയാണ് അതിനാൽ ആക്രമണത്തിൽ ഏതാണ് തരം എന്ന് വെളിപ്പെടുത്തൽ ഭീഷണി എനിക്കുണ്ട് പരിഷ്കരണങ്ങൾ പോലുള്ള വഞ്ചനയുടെ ഭീഷണികൾ രസീതും വസ്തുക്കളുടെ തരവും നിരസിക്കുന്നതിനെ നിരസിക്കുന്നു അതിനാൽ ഇത് വഞ്ചനയുടെ ഭീഷണിയാണ് തടസ്സപ്പെടുത്തൽ ഭീഷണിയുണ്ടാകാം അത് തടസ്സപ്പെടുത്തൽ സേവനത്തിന്റെ ഭീഷണികളിൽ മാറ്റം വരുത്തിയതാണെങ്കിൽ മറ്റൊന്ന് കൊള്ളയടിക്കാനുള്ള ഭീഷണിയാണ് അതായത് പരിഷ്കരണ തട്ടിപ്പ് സേവനങ്ങളുടെ കാലതാമസം ആണ് ഇവയാണ് വ്യത്യസ്ത തരം ഭീഷണികൾ നമ്മൾക്ക് സുരക്ഷാ ആശങ്കകളും ഭീഷണികളുമുള്ള ആക്രമണങ്ങളുണ്ട് ഇവ വ്യത്യസ്ത ഘടകങ്ങളാണ് മൊത്തത്തിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഏതെങ്കിലും വിവര സിസ്റ്റം അത് ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ അത് വ്യക്തിഗതമാണെങ്കിലും അല്ലെങ്കിൽ അത് ഇന്റർ ഓർഗനൈസേഷൻ ഇൻട്രാ ഓർഗനൈസേഷനാണെങ്കിൽ നയങ്ങളും സംവിധാനങ്ങളും വഴി നയിക്കപ്പെടുന്നതെന്തും വളരെ തന്ത്രപരമായ പ്രശ്നങ്ങളാണ് ശരിയായി അനുവദിക്കാത്തത് എന്താണെന്ന് നയം പറയുന്നു അനുവദനീയമായത് ശരിയായി അനുവദിക്കാത്തവയാണെന്ന് നയം പറയുന്നു ഏതെല്ലാം കാര്യങ്ങൾ അനുവദിക്കാമെന്നും അവിടെയുള്ള കാര്യങ്ങൾ നയങ്ങളെ നിർവചിക്കുന്നതിനുള്ള ഒരു ശ്രേണിയിലേക്ക് ക്രമീകരിക്കാമെന്നും ഒരു രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ അതിലേക്ക് പോകാത്ത കാര്യങ്ങളുടെ വ്യത്യസ്ത രീതികളുണ്ട് സൈറ്റ് സിസ്റ്റങ്ങളുടെ മൊത്തത്തിലുള്ള വിവര ഘടന മൊത്തത്തിലുള്ള നെറ്റ്വർക്ക് ആക്സസ് പ്രോട്ടോക്കോൾ ശരിയായി വിതരണം ചെയ്യുന്നതിനുള്ള വ്യക്തിഗത ഗ്രൂപ്പുകൾ എന്നിവയുടെ സുരക്ഷയെ ഇത് നിർവചിക്കുന്നു ഓർഗനൈസേഷനുകളിൽ സാധാരണയായി നയങ്ങളുണ്ട് നയങ്ങൾ ഒരു പരിധിവരെ കേന്ദ്രീകൃതമാണ് ഇത് ഓർഗനൈസേഷനുകളുടെ എല്ലാ ഘടകങ്ങൾക്കുമായി രൂപപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഒരു നയരൂപീകരണ ബോഡി അത് ചെയ്യുന്നു ഇപ്പോൾ ആകസ്മികമായി നടപ്പാക്കൽ വിതരണം ചെയ്യപ്പെടുന്ന സമയമാണ് ഈ ഐഐടി ഖരഗ്പൂർ നെറ്റ്വർക്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പോലെ നിരവധി ഉപ നെറ്റ്വർക്കുകളായി നിരവധി ലെയർ 3 പ്ലസ് ലെയർ 3 തരം സ്വിച്ചുകൾ ഉണ്ട് ഈ വഴി ട്രാഫിക് പോകുമെന്നും തുടങ്ങിയവയെക്കുറിച്ചും അവർ നയമുണ്ടെന്നും അതിൽ അധികമായി പ്രസിഡന്റുമാരുണ്ടെന്നും മനസ്സിലാകുന്നു അതേസമയം ഈ വ്യത്യസ്ത വിഭാഗത്തിലുള്ള ഉപകരണങ്ങളിൽ ഈ നയം നടപ്പിലാക്കേണ്ടതുണ്ട് നടപ്പാക്കൽ പലപ്പോഴും വിതരണം ചെയ്യപ്പെട്ട രീതിയിലോ വ്യത്യസ്ത ഉപകരണങ്ങളിലോ ഉള്ള കാര്യങ്ങളിലോ ആണ് ഈ നടപ്പാക്കലിന് എങ്ങനെ ഉറപ്പ് നൽകാമെന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് അതിൽ നയം നിർവചിക്കുന്നതിനേക്കാൾ കൂടുതലോ കുറവോ ഒന്നുമില്ല ഇവ തുറന്നതും അല്ലാത്തതുമായ ചില പ്രശ്നങ്ങളുണ്ട് ഇവ ലോകമെമ്പാടുമുള്ള വളരെ ശക്തമായ ഗവേഷണ പ്രശ്നമാണ് നിങ്ങളുടെ നടപ്പാക്കലും നയവും പരസ്പരം പൊരുത്തപ്പെടുന്നുവെന്ന് ഔദ്യോഗികമായി എങ്ങനെ പറയും ഇപ്പോൾ നയങ്ങൾ എന്താണ് എന്താണ് അനുവദിക്കാത്തത് എന്ന് പറയുന്നു അവിടെ ഞാൻ മറുവശത്ത് മെക്കാനിസങ്ങൾ നയങ്ങൾ ശരിയായി നടപ്പിലാക്കുന്നു എന്ന് പറയണം നയങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനം എനിക്കുണ്ട് അതിനാൽ പോളിസി പൊരുത്തക്കേടാണെങ്കിൽ നയങ്ങളുടെ ഘടന സുരക്ഷാ കേടുപാടുകൾ സൃഷ്ടിച്ചേക്കാം നയങ്ങൾ രചിക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് നിരവധി നയങ്ങളും ഘടനയും ഉണ്ടായേക്കാം തുടർന്ന് സുരക്ഷാ കേടുപാടുകൾ ഉണ്ടാകാം ഈ ട്രാഫിക് അനുവദിക്കാമെന്ന് ഒരു പോളിസി പറയുന്നുവെന്നോ അല്ലെങ്കിൽ ഈ ട്രാഫിക് നിരസിക്കണമെന്ന് മറ്റൊരു പോളിസി പറഞ്ഞതായോ എനിക്ക് പറയാൻ കഴിയുന്നതുപോലെ ഒരു ഓവർലാപ്പ് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു അത് അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം ശരിയായി തീരുമാനിക്കേണ്ടതുണ്ട് ഇത് പ്രധാനമായും സംഭവിക്കുന്നത് കാരണം ഇത് നടപ്പിലാക്കുന്ന കേസുകളുടെ എണ്ണം വിതരണം ചെയ്യപ്പെട്ട രീതിയിലാണ് ചില സമയങ്ങളിൽ പ്രാദേശികവും ആഗോള നയങ്ങളും മുതലായവയിൽ ക്ലാസുകളുണ്ടെങ്കിൽ ഇവ പരിഹരിക്കേണ്ടതുണ്ട് ഇവയെല്ലാം ഞാൻ ആദ്യം നിർവചിക്കേണ്ടതുണ്ട് ഇത് ഒരു വിലാസമായിരിക്കണം കൂടാതെ ഒരു ഓർഗനൈസേഷൻ ഉള്ളപ്പോൾ ഇത് വളരെ നിർണായകമായ ഒരു കാര്യമായിത്തീരുന്നു ഒരു വ്യക്തിഗത നയങ്ങൾ നോക്കാനും സ്ഥിരീകരിക്കാനും അവയെല്ലാം പരിശോധിക്കാനും വളരെ വലുതാണ് അവയെല്ലാം നോക്കുമ്പോൾ സുരക്ഷാ മോഡലുകളോ സുരക്ഷാ ലക്ഷ്യങ്ങളോ ഉണ്ടെന്ന് നമ്മൾക്ക് തോന്നുന്നു ആക്രമണ മോഡലുകൾ ഉണ്ട് ഭീഷണികളുണ്ട് കൂടാതെ എനിക്ക് നയങ്ങളും സംവിധാനങ്ങളും ഉണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നോക്കുന്ന മറ്റൊരു ഘടകമാണിത് ഞാൻ അവരെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് ഒപ്പം എന്റെ സുരക്ഷാ ലക്ഷ്യം എന്താണ് ഒരു സുരക്ഷാ ലക്ഷ്യമാണ് പ്രതിരോധം സുരക്ഷാ നയങ്ങൾ ലംഘിക്കുന്നതിൽ നിന്ന് ആക്രമണകാരികളെ തടയുക എന്നിവ അത് അവിടെ ഉണ്ടായിരിക്കണം ആക്രമണകാരി എനിക്ക് സുരക്ഷാ നയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുകയാണെങ്കിൽ ആക്രമണകാരികൾക്ക് സുരക്ഷാ നയങ്ങൾ ലംഘിക്കാൻ കഴിയില്ല ആക്രമണകാരികൾ സുരക്ഷാ നയത്തിന്റെ ലംഘനം കണ്ടെത്തൽ ആക്രമണകാരികൾ സുരക്ഷാ നയങ്ങൾ ലംഘിക്കുമ്പോൾ കണ്ടെത്തൽ ശരിയായി കണ്ടെത്തേണ്ടതുണ്ട് കണ്ടെത്തൽ എനിക്ക് ഉണ്ടായിരിക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടെത്തുന്നതിന് ശ്രമിക്കും നിങ്ങളുടെ സുരക്ഷാ പരിധി കൂടുതൽ ശക്തമാണ് അത് കഴിയുന്നതും വേഗം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം ആക്രമണം നടന്നുകഴിഞ്ഞാൽ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവശേഷിക്കുന്നത് സംഭവിച്ചതിന്റെ പോസ്റ്റ്മോർട്ടമാണ് അടിസ്ഥാനപരമായി മറ്റ് കാര്യങ്ങൾ നോക്കാൻ പഠിക്കുക വീണ്ടെടുക്കുന്ന മറ്റൊരു പ്രശ്നത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ആക്രമണമുണ്ടെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ വിട്ടുവീഴ്ച ചെയ്താൽ ഈ കാര്യത്തിൽ നിന്ന് എങ്ങനെ കരകയറാം ശരിയല്ലേ ആക്രമണം വിജയിക്കുകയാണെങ്കിൽപ്പോലും സ്റ്റോപ്പ് ആക്രമണം വിലയിരുത്തൽ കേടുപാടുകൾ തീർക്കൽ എന്നിവ പോലുള്ള എന്റെ വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ എന്തായിരിക്കും മികച്ച രീതികളിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട് റിഡൻഡൻസി സിസ്റ്റമെന്ന പോലുള്ള എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ നമ്മൾ നിലകൊള്ളുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട് നമ്മൾക്ക് ചെലവ് ശരിയായി ഇതെല്ലാം ഒരു ചിലവുമായി വരുന്നു വിശ്വാസവും അനുമാനങ്ങളും മറ്റൊരു വശമാണ് സുരക്ഷാ അവകാശത്തിന്റെ എല്ലാ വശങ്ങൾക്കും അടിവരയിടുക എനിക്ക് കുറച്ച് വിശ്വാസവും അനുമാനവുമുണ്ട് സിസ്റ്റം മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഈ പ്രത്യേക ആപ്ലിക്കേഷൻ തുടങ്ങിയവയും മറ്റും ഉണ്ട് ഇതെല്ലാം ഊന്നിപ്പറയുന്നു നമ്മളുടെ ദൈനംദിന ജീവിതത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്കായി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുതരം ടെസ്റ്റ് ട്രസ്റ്റ് ഉണ്ട് ഞാൻ പറയുന്നതുപോലുള്ള അനുമാനവും ആ പ്രത്യേക ഇൻസ്റ്റാളേഷന് കാവൽ നിൽക്കുന്ന സുരക്ഷാ വ്യക്തി അല്ലെങ്കിൽ പ്രത്യേക ആമുഖം ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയും ഇത് ഈ പരിധിവരെ വിശ്വസനീയമാണെന്ന് ഞാൻ കരുതുന്നു ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് നയങ്ങൾ വ്യക്തമായും വിഭജന സംവിധാനം ശരിയാണെന്ന് പ്രസ്താവിക്കുന്നു സ്റ്റേറ്റ് സിസ്റ്റം നോക്കിയാൽ അത് വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും കാരണം ആദ്യം ഇത് ഒരു ചലനാത്മക കാര്യമാണ് ഇത് സ്ഥിതിവിവരക്കണക്കിൽ നിർവചിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നല്ല ഇത് സിസ്റ്റം അവസ്ഥയെ വ്യക്തമായി വിഭജിക്കണം അതിനർത്ഥം ഞാൻ ഈ അവസ്ഥയിലാണ് അവിടെയുള്ളത് അവ്യക്തമായ പാർട്ടീഷൻ ആയിരിക്കണം ഓരോ ഘട്ടത്തിലും സുരക്ഷാ ആവശ്യകത ശരിയായി പിടിച്ചെടുക്കുന്നു ഇത് വിഭജനം മാത്രമല്ല ഓരോ ഘട്ടത്തിന്റെയും സുരക്ഷാ ആവശ്യകതകളും ആയിരിക്കണം നയങ്ങൾ നടപ്പിലാക്കാൻ മെക്കാനിസങ്ങൾ അനുമാനിക്കുന്നു നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് മെക്കാനിസങ്ങൾ പിന്തുണയ്ക്കുന്നു മെക്കാനിസങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നു അതിനാൽ മെക്കാനിസം അടിസ്ഥാനപരമായി നയങ്ങളുടെ നടപ്പാക്കലോ തിരിച്ചറിവോ ആണെന്നും അവ ശരിയായിരിക്കണം ഇപ്പോൾ നമ്മൾ അല്പം സമഗ്രമായി നോക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ശരിയായ എത്തിച്ചേരാവുന്ന അവസ്ഥകളുടെ ഒരു കൂട്ടം എനിക്ക് ഉണ്ട് എത്തിച്ചേരാവുന്ന അവസ്ഥയുടെ ഗണം ഇത്തരത്തിലുള്ള കുഴപ്പത്തിലാണെങ്കിൽ ഈ തരത്തിലുള്ള ഹാഷ് ലൈൻ പോലുള്ള സുരക്ഷിത ഘട്ടങ്ങൾ എനിക്കുണ്ട് നമ്മൾ പറയുന്ന ഒന്ന് എത്തിച്ചേരാവുന്ന അവസ്ഥയുടെ ഗണം മൊത്തത്തിലുള്ള സുരക്ഷിത അവസ്ഥയുടെ കൂട്ടത്തിലാണെങ്കിൽ അത് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഞാൻ പറയുന്നു സിസ്റ്റം വ്യത്യസ്ത അവസ്ഥയിലേക്ക് കടക്കുന്നുവെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലാം സുരക്ഷാ അവസ്ഥയിലാണ് അതിനാൽ എന്റെ സിസ്റ്റം സുരക്ഷിതമാക്കുന്നതിന് എനിക്ക് എസ് 1 മുതൽ എസ് 20 വരെ സെക്യൂരിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നു ഇത് എല്ലായ്പ്പോഴും സുരക്ഷാ അവസ്ഥയിലാണെന്നാണ് ഇതിനർത്ഥം ഇത് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നുവെന്നത് കൃത്യമായി പറയാൻ കഴിയും മറ്റുള്ളവ വിശാലമാകാം അതിനർത്ഥം എല്ലാം സുരക്ഷാ മേഖലയിലോ സുരക്ഷിത അവസ്ഥലോ അല്ല മറിച്ച് a എന്നാൽ ശരിയായ ചില അവസ്ഥകളുണ്ട് എന്റെ സുരക്ഷാ നയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ എത്രമാത്രം സുരക്ഷിതനാണെന്ന് എനിക്ക് പറയാൻ കഴിയും ഉറപ്പുകളുടെ ഒരു പ്രശ്നമുണ്ട് അതിൽ സവിശേഷതകൾ ഉണ്ട് ആവശ്യമുള്ള പ്രവർത്തന ഡിസൈനുകളുടെ ആവശ്യകത വിശകലന പ്രസ്താവന പോലെ ആണ് രൂപകൽപ്പന ശരിയായി നടപ്പിലാക്കുന്ന പ്രോഗ്രാം സിസ്റ്റങ്ങൾ എങ്ങനെയാണ് സവിശേഷതകളും നടപ്പാക്കലും നിറവേറ്റുക അത് ശരിയായി രൂപകൽപ്പന ചെയ്യുന്നതിനായി ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ ഡിസൈൻ സവിശേഷത മുതലായവയെ അടിസ്ഥാനമാക്കി ഇത്രയധികം സുരക്ഷ ഉറപ്പാക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും നടപ്പിലാക്കേണ്ട ഏറ്റവും നല്ല രീതികൾ ഇതാണ് എന്റെ സുരക്ഷാ നില ഉയരുന്നു ഇപ്പോൾ പ്രവർത്തന പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ശരിയായ ആനുകൂല്യങ്ങൾ തടയുന്നതിനോ വീണ്ടെടുക്കുന്നതിനോ വിലകുറഞ്ഞതാണ് സാധാരണ ആനുകൂല്യ ചെലവ് വിശകലനം ആണ് ഇത് വിലയേറിയതാണെങ്കിലും അത് വീണ്ടെടുക്കുകയാണ് അല്ലെങ്കിൽ അത് ചില ലിനക്സ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഇവ രണ്ടും സംയോജിപ്പിച്ച ഒരു ലാപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ലാപ് പ്രവർത്തിപ്പിക്കുന്നു പക്ഷേ ഞാൻ സിസ്റ്റത്തിൽ ഒന്നും സംഭരിക്കുന്നില്ല ശരിയാണ് അത്തരം സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ പ്രമാണങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവരുടെ കോഡുകൾ തുടങ്ങിയവ ഡൌൺലോഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് തുടർന്ന് കാര്യം ശരിയായി പുറത്തിറക്കുക എന്നാൽ ദിവസാവസാനം ഒരു ഡാറ്റയും സംഭരിക്കുന്നതിനെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല അല്ലെങ്കിൽ അതോറിറ്റിയിൽ നിന്ന് ഉത്തരവാദിത്തമൊന്നുമില്ല ഡാറ്റ സംരക്ഷിക്കപ്പെടും അതിനായി ആക്രമണം ശരിയായി തടയുന്നതിന് കൂടുതൽ താല്പര്യം കാണിച്ചേക്കില്ല മുഴുവൻ സിസ്റ്റത്തിന്റെയും ഒരു ഇമേജ് എനിക്ക് ഇതിനകം തന്നെ ഉണ്ടായിരിക്കാമെന്നും എനിക്ക് ചിത്രം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാമെന്നും എനിക്ക് എല്ലായ്പ്പോഴും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ചില ആക്രമണങ്ങൾ പോലും ഉണ്ട് മറുവശത്ത് ഒരു ഡാറ്റ തീവ്രമായ അല്ലെങ്കിൽ ഗവേഷണ ഡാറ്റ തുടങ്ങിയവ പറയുകയാണെങ്കിൽ ആക്രമണം ശരിയായി തടയുന്നതിൽ എനിക്ക് കൂടുതൽ താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ ഡാറ്റ തടയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആണ് അത് ചെലവ് വിശകലന ആനുകൂല്യമാണ് റിസ്ക് വിശകലനം ശരിയാണ് ഈ കാര്യത്തെ നാം എത്രമാത്രം സംരക്ഷിക്കണം എന്തെങ്കിലും സംരക്ഷിക്കണം നിയമങ്ങളും ആചാരങ്ങളും എത്രത്തോളം അപകടകരമാണ് നിയമവിരുദ്ധമായ സുരക്ഷാ നടപടികൾ ആളുകൾ നിയമവിരുദ്ധമായി ചെയ്യട്ടെ നമ്മൾക്ക് വ്യത്യസ്ത പ്രവർത്തന പ്രശ്നങ്ങളുണ്ട് ചില മനുഷ്യരുടെ അവകാശങ്ങൾ ഉണ്ട് സംഘടനാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യർ ലൂപ്പിലുണ്ട് അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിന്റെ മാനുഷിക പ്രശ്നങ്ങളുമുണ്ട് നമ്മൾ അവയെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഭീഷണികൾ ഉണ്ടോയെന്നത് ഭീഷണികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പോളിസികൾ സ്പെസിഫിക്കേഷനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രവർത്തന പ്രശ്നങ്ങൾ നടപ്പിലാക്കുന്നതിനോ ഡിസൈൻ കൂടാതെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന പ്രശ്നങ്ങൾ ഒരു ഭീഷണിയായി വരുന്നു നമ്മൾ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇത് ഒരു തരം പോലെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ദാതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സിസ്റ്റം കാഴ്ചപ്പാടിൽ നിന്നോ ഉള്ള കാഴ്ചപ്പാടിൽ നിന്ന് കൂടുതലാണ് സാധ്യമായ ഭീഷണികൾ എന്തായിരിക്കാമെന്നത് പോലെ സാധ്യമായ പ്രധാനപ്പെട്ട നയങ്ങൾ എന്തായിരിക്കാം മെക്കാനിസങ്ങൾ എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടത് തുടങ്ങിയവ എന്നാൽ ഒന്ന് പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണങ്ങൾ നിഷ്ക്രിയ ആക്രമണമാണെന്ന് നമ്മൾ നോക്കാൻ ശ്രമിച്ചാൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുക ഇത് ആക്രമണങ്ങളല്ല പക്ഷേ ഇവ കൂടുതൽ ശ്രദ്ധിക്കുന്നു 2 തരത്തിലുള്ള സന്ദേശ പ്രക്ഷേപണത്തിന്റെ ഉള്ളടക്കങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് എതിരാളിയെ തടയുന്നത് അഭികാമ്യമാണ് സന്ദേശ ട്രാഫിക് വിശകലനത്തിൽ ഒന്നായിരിക്കാം സന്ദേശ ഉള്ളടക്കത്തിന്റെ പ്രകാശനം ഞാൻ സന്ദേശം നോക്കുന്നില്ല പക്ഷേ പറയുക പക്ഷേ ട്രാഫിക്കിനെ ശരിയായി നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ട്രാഫിക് വളരെ അസ്ഥിരമോ കനത്തതോ കുറവോ ആണെങ്കിൽ ശരിയായ രീതിയിലുള്ള സംവിധാനങ്ങളുടെ ഫലം എന്തായിരിക്കുമെന്ന് ഞാൻ പ്രവചിക്കാൻ ശ്രമിക്കുന്നു വളരെ ഉയർന്ന ട്രാഫിക് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ കോൺഫറൻസിംഗോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും കുറഞ്ഞ ട്രാഫിക്കോ ഇടത്തരം ട്രാഫിക്കോ ആണെങ്കിൽ ഇത് എന്നോട് എന്തെങ്കിലും ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് ഇത്തരത്തിലുള്ള കാര്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും ട്രാഫിക് നിലനിൽക്കുന്ന സമയത്തെ മാത്രമല്ല വ്യത്യസ്തമായ പ്രധാന പങ്ക് വഹിക്കുന്നു സാധാരണയായി നിഷ്ക്രിയ ആക്രമണകാരികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് കാരണം അവർ നേരിട്ട് ദോഷം ചെയ്യാത്തതും കണ്ടെത്തുന്നത് വളരെ പ്രയാസവുമാണ് അതേസമയം എനിക്ക് സജീവമായ ആക്രമണകാരികളുണ്ട് ഡാറ്റാ സ്ട്രീമിന്റെ ചില പരിഷ്ക്കരണങ്ങളോ തെറ്റായ സ്ട്രീമുകളുടെ സൃഷ്ടിയോ ഉൾപ്പെടുന്നതുപോലെ ഇതെല്ലാം സജീവമായ ആക്രമണകാരികളാണ് അതിനാൽ 4 വിഭാഗങ്ങൾ ഉണ്ട് അതിനാൽ ഒന്ന് മാസ്ക്വറേഡ് ആണിത് അനധികൃത ഇഫക്റ്റ് ശരിയായി സൃഷ്ടിക്കുന്നതിനുള്ള തുടർന്നുള്ള പുനർപ്രക്ഷേപണമാണിത് അതിനാൽ ഇത് ഒരു റീപ്ലേ ആക്രമണമാണ് ഡാറ്റാ യൂണിറ്റുകളുടെ നിഷ്ക്രിയ ക്യാപ്ചർ അടങ്ങിയിരിക്കുന്നു ഇത് തീയതി പരിഷ്കരണത്തിന്റെ വലിയ അളവിലുള്ള പുനപ്രക്ഷേപണമാണ് നിയമാനുസൃത സന്ദേശത്തിന്റെ ചില ഭാഗം മാറ്റി സേവന പരിഷ്കരണ നിഷേധത്തിന്റെ ആക്രമണം ആശയവിനിമയ സൌകര്യങ്ങളുടെ സാധാരണ ഉപയോഗത്തെ തടയുന്നു ഇത് ഒരു ഡോസ് തരം ആക്രമണമോ സേവനങ്ങളുടെ ആക്രമണ നിഷേധമോ ആണ് ഈ ആക്രമണങ്ങളെല്ലാം സജീവമായ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മളുടെ പ്രശ്നം സൃഷ്ടിക്കുന്നു ഇപ്പോൾ സുരക്ഷാ സേവനങ്ങളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണികളാണിതെന്ന് നമ്മൾ കണ്ടു സുരക്ഷാ സേവനങ്ങൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു രഹസ്യാത്മകത ആധികാരികത സമഗ്രത നോൺ റിപ്ഡേഷൻ ആക്സസ് നിയന്ത്രണം പ്രവേശനക്ഷമത ലഭ്യത എന്നിവ പോലെ ഓർഡർ അന്തിമ അവകാശമാണെന്ന് നമ്മൾ പറയുന്നു നോൺ റിപ്ഡേഷൻക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഓൺലൈനിലൂടെൻ അക്കൌണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൌണ്ടിലേക്ക് എക്സ് തുക കൈമാറണമെന്ന് ബാങ്കിന് നിർദ്ദേശം നൽകി അടുത്ത ദിവസം ബാങ്കിലേക്ക് പോകുമ്പോൾ ഈ അവകാശം നൽകിയിട്ടില്ല എന്നും കരുതുക ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം ഉണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഓർഡർ മികച്ചതെന്ന് പറയുന്നത് ആക്സസ് നിയന്ത്രണം ഒരു വലിയ ഫീൽഡാണ് ഈ ആക്സസ് നിയന്ത്രണം എങ്ങനെ ഉണ്ടാകും എന്നത് റോൾ അധിഷ്ഠിത ആക്സസ് നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചും മറ്റും പ്രവർത്തിക്കുന്നു വിഭവങ്ങളുടെ ദുരുപയോഗം തടയുക എന്നാണ് അടിസ്ഥാനപരമായി പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക റിസോഴ്സ് സെന്ററിലേക്ക് പ്രത്യേക റിസോഴ്സ് പ്രത്യേക ആക്സസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ റിസോഴ്സ് ഉപയോഗിക്കാൻ കഴിയും ലഭ്യത പ്രകടനവും മായ്ക്കാത്ത തരത്തിലുള്ള സേവനങ്ങളും ആണിവ അത് സേവന ആക്രമണത്തിന്റെ നിഷേധമാണ് കൂടാതെ ഫയലുകൾ ഇല്ലാതാക്കുന്ന വൈറസ് ഉണ്ടാകാം അതാണ് നോൺ അവൈലബിലിറ്റിയുടെ ഭാഗവും അതിനാൽ സുരക്ഷയുടെ പങ്ക് പ്രധാനമാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സുരക്ഷാ നെറ്റ്വർക്ക് സുരക്ഷാ വിവര സുരക്ഷ ക്ലൌഡ് സുരക്ഷയെക്കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ കാര്യത്തിന്റെ പങ്ക് എന്താണ് സുരക്ഷാ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം രഹസ്യസ്വഭാവം നൽകണം അതായത് സ്വകാര്യത നഷ്ടപ്പെടുന്നതിൽ നിന്ന് പരിരക്ഷിക്കുക ഡാറ്റയിൽ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ അഴിമതിക്കെതിരായ സമഗ്രത പരിരക്ഷണം ഈ സമഗ്രതയുടെ സംരക്ഷണം അതാണ് കാരണം സന്ദേശ കൈമാറ്റ സമയത്ത് ഡാറ്റയിൽ മാറ്റം വരുത്തുന്നുവെന്ന് നിങ്ങൾ കണ്ടു നിയമാനുസൃത ഉപയോക്താക്കളുടെ സേവന പ്രാമാണീകരണ ഐഡന്റിഫിക്കേഷൻ നിരസിക്കുന്നതിനെതിരെ ലഭ്യത പരിരക്ഷണം ഉണ്ട് അങ്ങനെ ഒരു പ്രാമാണീകരിച്ച നിയമാനുസൃത ഉപയോക്താവിനെ എങ്ങനെ തിരിച്ചറിയാം ഒരു പ്രത്യേക ഉപയോക്താവ് പ്രവർത്തനം അനുവദിക്കണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്നതാണ് അംഗീകാരം ഓർഡർ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നിരസിക്കാത്തത് അന്തിമമാണ് കേടുപാടുകൾ മോഷ്ടിക്കുന്നതിനെതിരായ സുരക്ഷാ പരിരക്ഷ മുതലായവ സോഷ്യൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയവ മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങളുടെ ഒരു പരമ്പര നമ്മളുടെ പക്കലുണ്ട് ഇവ വ്യത്യസ്ത തരം ആക്രമണങ്ങളാണ് അവ സിസ്റ്റത്തിൽ ഉണ്ട് അവ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിനും ഒരു അർത്ഥത്തിൽ ശരിയാണ് നെറ്റ്വർക്ക് സുരക്ഷ എന്ന് പറയുന്നതുപോലുള്ള ഒരു സാധാരണ രംഗം നോക്കിയാൽ ക്ലൌഡ് ഒരു പദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കാരണം അടിസ്ഥാനപരമായി വിതരണ സംവിധാനങ്ങളിൽ ലിവറേജ് അല്ലെങ്കിൽ നെറ്റ്വർക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ അടിസ്ഥാന നെറ്റ്വർക്ക് തല സുരക്ഷ ഉയർന്നതാണ് സുരക്ഷാ നയം എന്തായിരിക്കണമെന്ന നെറ്റ്വർക്ക് സുരക്ഷാ നയങ്ങളുടെ ഈ ദൃഡനിശ്ചയം പോലെയാണ് നെറ്റ്വർക്ക് സുരക്ഷ പ്രവർത്തിക്കുന്നത് ആ നയം നടപ്പിലാക്കുകയും തുടർന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്യുക അതിനാൽ സുരക്ഷാ കാര്യങ്ങൾ നിലവിലുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം വൾനറിബിൾ ആണെന്നതുപോലുള്ള വൾനറിബിൾ സ്കാൻ ചെയ്യുന്നതാണോ ഇത് എന്ന് കാണണം വൾനറിബിൾ സ്കാനിംഗിലേക്ക് നോക്കുമ്പോൾ നുഴഞ്ഞുകയറ്റ പരിശോധന എന്ന ആശയം ഉണ്ട് അതിനർത്ഥം നമ്മൾ പറയുന്നത് സ്വയം ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സ്വയവും സുരക്ഷിതവുമായ ആക്രമണ സാഹചര്യമാണ് സിസ്റ്റത്തിലേക്ക് എനിക്ക് എത്രമാത്രം പ്രവചിക്കാൻ കഴിയും ഇത് ഒരു നുഴഞ്ഞുകയറ്റ പരിശോധനയാണ് അന്വേഷണത്തിൽ പോസ്റ്റ് ആക്രമണത്തിന്റെ ആവശ്യകതയുണ്ട് ഒരു ആക്രമണമുണ്ടെങ്കിൽ ആക്രമണത്തിന് ശേഷമുള്ള അന്വേഷണം സുരക്ഷാ നയം ഒരു പൂർണ്ണ സുരക്ഷാ റോഡ്മാപ്പാണെന്നും ഏത് ഓർഗനൈസേഷനും ആണെന്നും സുരക്ഷാ നയത്തിന്റെ നിർണ്ണയം ഒരു ഇന്റർ ഓർഗനൈസേഷനാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ നോക്കാം സുരക്ഷാ നയങ്ങൾ എന്തായിരിക്കും ശരിയായി സ്ഥാപിക്കേണ്ടത് ഒരു പൂർണ്ണ റോഡ് മാപ്പ് ഉണ്ടായിരിക്കണം നെറ്റ്വർക്ക് ഡിസൈൻ ഈ നയങ്ങളെ പ്രതിഫലിപ്പിക്കണം ഇത് ഒരു നെറ്റ്വർക്ക് കാര്യമാണ് നിങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോഴെല്ലാം ഇത് ഈ സുരക്ഷാ നയങ്ങൾ സ്ഥിരീകരിക്കണം നയങ്ങൾ നടപ്പിലാക്കുന്ന സുരക്ഷാ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഫയർവാളുകൾ പോലുള്ള സുരക്ഷാ നടപടികളുടെ ഇൻസ്റ്റാളേഷനും കോൺഫിഗറേഷനും നൽകണം ഐഡികളുടെ കോൺഫിഗറേഷൻ ഇൻസ്റ്റാളുചെയ്യലും ഉൾപ്പെടുന്നു കൂടാതെ മറ്റ് നിരവധി കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു വലിയ ചിത്രമാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ സ്ഥലത്ത് സൈനികവൽക്കരിക്കപ്പെട്ട സോൺ ആന്തരിക നെറ്റ്വർക്ക് ഉണ്ട് ആ ഫയർവാൾ അല്ലെങ്കിൽ 2 ഫയർവാളുകൾ ഉണ്ട് സുരക്ഷാ നയങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ ഫയർവാളിലെയോ ഐഡികളിലെയോ അധിക നിയമങ്ങൾ അല്ലെങ്കിൽ ദുർബലമായ കാര്യങ്ങൾ ഉള്ളിടത്ത് ഹണിപോട്ട് അല്ലെങ്കിൽ ഹണിനെറ്റ് അല്ലെങ്കിൽ ഫയർവാൾ പോളിസികളുണ്ട് അടുത്ത കാര്യം നെറ്റ്വർക്കിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട് നിങ്ങളെ ആക്രമിക്കണോ തടയണോ എന്നതിന് നെറ്റ്വർക്കുകളൊന്നും ആവശ്യമില്ല ഹോസ്റ്റിന്റെ ഐപി വിലാസം നിർണായക ഡാറ്റയുള്ള കീ സെർവറുകളെ തിരിച്ചറിയുന്നു അതിനാൽ 2 ഫോമുകളുണ്ട് ഒന്ന് നിഷ്ക്രിയമാണ് അത് തിരിച്ചറിയാൻ കഴിയില്ല ഒന്ന് സജീവമാണ് ഇത് പലപ്പോഴും ഐഡിയുടെ അവകാശത്താൽ കണ്ടെത്താനാകില്ല ഇത് ഒരു ആവശ്യമാണ് ഒരു വൾനറിബിൾ സ്കാനിംഗ് ഉണ്ട് നമ്മൾ ചർച്ചചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി കേടുപാടുകൾ ശരിയായി സ്കാൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ മറ്റ് സിസ്റ്റമനുസരിച്ച് ഞാൻ എത്രമാത്രം വൾനറിബിൾ അറിയേണ്ടതുണ്ട് മാപ്പിൽ ഒരു ഓപ്പൺ സോഴ്സ് കനം ഉള്ളതുപോലെ ഒരു നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ വ്യത്യസ്ത സ്കാനറുകളുണ്ട് പോർട്ടുകളിൽ തുറന്നിരിക്കുന്നവയും സാധ്യമായ അപകടസാധ്യതകളും ശരിയായ കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി സ്കാൻ ചെയ്യാൻ കഴിയും നിങ്ങൾ സ്കാൻ ചെയ്ത് കാണേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ ഇൻസ്റ്റാളേഷന്റെ സുരക്ഷാ ആരോഗ്യം വ്യക്തമാക്കാത്ത സുരക്ഷാ ഉദ്ധരണി എന്താണ് മറ്റ് സ്കാനറുകൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കും അപ്പോൾ അവയെ മെറ്റാസ്പ്ലോയിറ്റ് മുതലായവയുടെ കാര്യത്തിലും ഇത് തുടരുന്നു അതിനാൽ ഒപ്പുകൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾക്ക് പെനെട്രേഷൻ ഇടാനും കഴിയും നമ്മൾക്ക് ഒരു പോസ്റ്റ് ആക്രമണ അന്വേഷണം ഉണ്ട് ആക്രമണത്തിന്റെ ഫോറൻസിക്സ് രംഗങ്ങൾ അവിടെ നടക്കുന്നു തുടർന്ന് കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ തെളിവുകളുടെ ഒരു ശൃംഖല നിലനിർത്തുന്നുവെന്ന നിയമങ്ങളാൽ വളരെയധികം നയിക്കപ്പെടുന്നു ഇവ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ആക്രമണ സാഹചര്യങ്ങളാണ് ഒരു ക്ളൌഡ്ന്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം ഒരേ രൂപത്തിലോ വ്യത്യസ്ത രൂപത്തിലോ വരുന്നു ഇവ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ചചെയ്തിട്ടുണ്ടെങ്കിലും ഇവ കൂടുതൽ ജനറിക് ആണ് എന്നാൽ ഇവ പ്രാഥമികമായി കൂടുതൽ സൃഷ്ടിക്കുന്ന ആക്രമണങ്ങളാണ് വ്യത്യസ്ത ആക്രമണരീതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നമ്മൾക്ക് ഈ പോസ്റ്റ് ആക്രമണ അന്വേഷണമുണ്ട് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ കാര്യത്തിൽ ഈ സുരക്ഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നോ അടുത്ത പ്രഭാഷണത്തിലോ മറ്റോ നോക്കാൻ നമ്മൾ ശ്രമിക്കും അതിനാൽ ഇന്ന് ഇവിടെ നിർത്തും